നമസ്കാരം ഇന്ന് മെഷ് വിശകലനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നലത്തെ ചർച്ച തുടരും അതിനാൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ആദ്യം മനസിലാക്കാം അതിനാൽ മെഷ് വിശകലനം എന്താണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു മെഷ് കറന്റും ബ്രാഞ്ച് കറന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സ്ഥിരീകരിച്ചു കൂടാതെ ഓരോ ലൂപ്പിനെയും മെഷ് ആയി കണക്കാക്കാൻ കഴിയില്ലെന്നും നമ്മൾ കണ്ടു കാരണം മെഷ് എന്നാൽ ആ ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപും അടങ്ങിട്ടില്ല എന്നതാണ് കിർചോഫ് വോൾട്ടേജ് നിയമത്തിന്റെKirchhoff's voltage law സഹായത്തോടെ മെഷ് വിശകലനം നടത്താമെന്നും നമ്മൾ കണ്ടു മെഷ് വിശകലനം പ്ലാനാർ ആയ സർക്യൂട്ടിന് മാത്രമേ ബാധകമാകൂ എന്നും പ്ലാനാർ എന്നാൽ ഒരു പ്രതലത്തിൽ വരയ്ക്കാവുന്ന സർക്യൂട്ട് ആണെന്നും അതിന് പരസ്പരം കടക്കുന്ന ഒരു ശാഖയും ഇല്ലെന്നും ഇന്നലെ ചർച്ച ചെയ്തു അതിനാൽ ഈ സാഹചര്യത്തിലെന്നപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഒരു പ്ലാനാർ സർക്യൂട്ട് അല്ല കാരണം അത് ഒരു പ്രതലത്തിൽ വരയ്ക്കാത്തതിനാൽ ഇത് ത്രിമാന ഘടന പോലെയാണ് അതുപോലെ ഇവിടെയും ഇത് ശാഖകൾ മറികടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു പക്ഷേ നമുക്ക് ഇത് പുനർക്രമീകരിച്ചു ഒരു ഒരു പ്ലാനാർ സർക്യൂട്ട് ആക്കാം മെഷ് വിശകലനത്തിന് മൂന്ന് ഘട്ടങ്ങൾ ആവശ്യമാണെന്ന് കണ്ടു നമ്മൾ ആദ്യം മെഷ് വൈദ്യുത പ്രവാഹങ്ങൾ നിർവചിക്കും തുടർന്ന് നമ്മൾ ഓരോ n മെഷിലും KVL പ്രയോഗിക്കുകയും n സമവാക്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും നമ്മൾ ഈ സർക്യൂട്ട് എടുത്തു അത് കണ്ടെത്തി ഇവ നമ്മുടെ മെഷ് വിശകലനത്തിന്റെ ഫലമായ സമവാക്യങ്ങളാണ് പിന്നീട് നമുക്ക് അത് പരിഹരിക്കാനും ഉത്തരം നേടാനും കഴിയും ആവശ്യമായ തുല്യമായ സമവാക്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിൽ നെറ്റ്വർക്ക് ടോപ്പോളജി സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് കരുതുക ബ്രാഞ്ചുകളുടെ എണ്ണം എന്നാൽ ലൂപ്പുകളുടെ എണ്ണം പ്ലസ് നോഡുകളുടെ എണ്ണം മൈനസ് ഒന്ന് ആണ് അതിനാൽ മുമ്പത്തെ ചിത്രത്തിൽ 3 നോഡുകളും 5 ശാഖകളുമുള്ളതിനാൽ മൂന്ന് എന്ന് ലൂപ്പുകളുടെ എണ്ണം ലഭിച്ചു അതിനാൽ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് നമ്മുക്ക് കുറഞ്ഞത് മൂന്ന് സ്വതന്ത്ര സമവാക്യങ്ങൾ ആവശ്യമാണ് എന്നാണ് ഇതിനർത്ഥം അടിസ്ഥാനപരമായി ഒരു ഡിസി സർക്യൂട്ട് ഇന്റെ ഉദാഹരണം നമ്മൾ ചർച്ചചെയ്തു 5 ഓം റെസിസ്റ്റൻസിലെ കറന്റ് 0 44 ആമ്പിയറും 1 ഓം റെസിസ്റ്റൻസ് 0 69 ആമ്പിയറുമാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഈ ഉദാഹരണം ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ എസി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതാണ് ഡിസി നെറ്റ്വർക്കല്ല ഇപ്പോൾ മെഷ് കറന്റ് I1 I2 എന്നിവയും കപ്പാസിറ്ററിൽ ഒഴുകുന്ന കറന്റും 100 വോൾട്ടേജ് വിതരണം ചെയ്യുന്ന ആക്റ്റീവ് പവറും നിന്ന് നിർണ്ണയിക്കുക എന്നതാണ് ലക്ഷ്യം അതിനായി റഫറൻസ് ഫേസർ പൂജ്യം ആയിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ ഈ സർക്യൂട്ട് ഉപയോഗിക്കുകയും മെഷ് അനാലിസിസ് ടെക്നിക് പ്രയോഗിച്ച് ഫലം കണ്ടെത്തുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് ലൂപ്പുകൾ സൃഷ്ടിക്കാൻ കഴിയും കാരണം ഇത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന രണ്ട് സ്വതന്ത്ര മെഷ് ആണ് അതിനാൽ ഈ പ്രത്യേക മെഷിൽ കറന്റ് I1 ആണെന്നും ഈ മെഷിൽ കറന്റ് I2 ആണെന്നും നമുക്ക് പറയാം അതിനാൽ രണ്ട് മെഷുകൾക്കും രണ്ട് സമവാക്യങ്ങൾ എഴുതാം അതായത് ഓരോ മെഷ് നും ഓരോ സമവാക്യം അതിനാൽ ആദ്യത്തെ മെഷിനായി ഈ മെഷിൽ ഒഴുകുന്ന കറന്റ് കണ്ടാൽ നിങ്ങൾക്ക് കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിച്ച് ഈ പ്രത്യേക മെഷിന്റെ സമവാക്യം കണ്ടെത്താനാകും അതിനാൽ 5 ഓം റെസിസ്റ്റൻസ് ഇൽ ആരംഭിക്കാം അതിനാൽ 5 ഓമിൽ കറന്റ് ഒഴുകുന്നുവെന്ന് പറഞ്ഞാൽ 5 I1 എന്ന് എഴുതാം അപ്പോൾ നിങ്ങൾ മൈനസിൽ നിന്ന് ലോവർ വോൾട്ടേജ് ലെവലിലേക്ക് തുടർന്ന് അപ്പർ വോൾട്ടേജ് ലെവലിലേക്ക് പോകുന്നു വോൾട്ടേജ് സ്രോതസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതിനായി 100∠0◦ എഴുതാം ഈ വൈദ്യുതധാര കപ്പാസിറ്ററിലൂടെ ഒഴുകുന്നതിനാൽ നിങ്ങൾ −j4 എഴുതുന്നു എന്തുകൊണ്ട് I2 കാരണം I1 ഈ ദിശയിലാണെങ്കിലും I2 വിപരീത ദിശയിലേക്ക് പ്രവഹിക്കുന്നു അതിനാൽ ഈ പ്രത്യേക കപ്പാസിറ്ററിനായി നിങ്ങൾക്ക് നെറ്റ് കറന്റ് I1 I2 ആയിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിച്ചു ഇത് പുനർക്രമീകരിച്ചാൽ നിങ്ങൾക്ക് 5−j4I1 −−j4I2 100∠0 ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് മെഷ് ഒന്നിനായി ആദ്യത്തെ സമവാക്യം ലഭിക്കും ഇപ്പോൾ ഇത് രണ്ടാമത്തെ മെഷ് കണ്ടാൽ 4 ഓം ഉപയോഗിച്ച് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന സമവാക്യം 4j3I2 ഇതാണ് എന്നിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ −j4 ലഭിക്കും അത് 0 ന് തുല്യമായിരിക്കും നിങ്ങൾ പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾ 4j3−j4I2 −−j4I1 0 ലഭിക്കും അതിനാൽ നിങ്ങൾ ഈ സമവാക്യം പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിക്കും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ പുനർക്രമീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ സമവാക്യം പുനർക്രമീകരിച്ച് പരിഹരിച്ചാൽ കറന്റ് I110

7◦എന്ന് ലഭിക്കും ഇപ്പോൾ ഫലം നിങ്ങൾക്ക് റെക്ടൻഗുലാർ കോർഡിനേറ്റിന്റെ രൂപത്തിൽ വരുന്നതായി കാണാം അവിടെ നിങ്ങൾക്ക് യഥാർത്ഥ ഘടകവും സാങ്കൽപ്പിക ഘടകവും ഉണ്ടാകും അതിനാൽ ഫേസർ കണക്കുകൂട്ടലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ മുമ്പത്തെ അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വൈദ്യുതധാരകളുടെ മൂല്യം ഫേസ്റിന്റെ കാര്യത്തിലും കണ്ടെത്താനാകും ഇപ്പോൾ അടുത്തത് കപ്പാസിറ്ററിൽ കറന്റ് എന്താണ് കപ്പാസിറ്ററിൽ കറന്റ് പ്രവാഹം I1 − I2 10 44j12 28 13 12◦ A ആയിരിക്കും ഇപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ കണക്കാക്കേണ്ടത് ഉറവിട പവർ ആയ ആക്റ്റീവ് പവർ ആണ് അതിനാൽ ആക്റ്റീവ് പവർ P VI cos φ ആണ് ഇവിടെ വോൾട്ടേജ് V ഒരു റഫറൻസ് ഫേസ്റാണ് കാരണം ഇത് സാധാരണയായി 0 ആണ് അതിനാൽ നിങ്ങൾ ഇത് ഒരുറഫറൻസ് ഫേസ്റായി കണക്കാക്കുന്നു തുടർന്ന് നിങ്ങൾ കറന്റിന്റെ മൂല്യം നൽകണം കറന്റ് എന്തായിരിക്കും ഉറവിടത്തിൽ നിന്ന് കറന്റ് ഒഴുകുന്നു അതിനാൽ എന്താണ് കറന്റ് കറന്റ് പ്രധാനമായും I1 ന്റെ മൂല്യമായിരിക്കും കാരണം ഇത് ഈ പ്രത്യേക ഭാഗത്തു നിന്ന് ഒഴുകുന്ന കറന്റാണ് അതിനാൽ നിങ്ങൾ V യുടെ മൂല്യം ഇട്ടു I cos φ കറന്റ് I1 ഇന്റെ ആംഗിൾ അല്ലാതെ മറ്റൊന്നും അല്ല അത് നിങ്ങൾക്ക് ഉറവിട പവർ നൽകും P VI cos φ 10 77 cos 19 9W 1020W ഇപ്പോൾ നിങ്ങളുടെ പവർ കണക്കുകൂട്ടൽ ശരിയാണോ എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്യൂട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ആക്റ്റീവ് പവർ റെസിസ്റ്റർ 5 ഓം ഇനും റെസിസ്റ്റർ 4 ഓം ഇനും മാത്രമേ ആഗിരണം ചെയ്യാൻ കഴിയൂ അതിനാൽ ഉറവിടം നൽകുന്ന ആക്റ്റീവ് പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ രണ്ട് റെസിസ്റ്ററുകളിൽ ഉം ആഗിരണം ചെയ്യപ്പെടുന്ന പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനാൽ ഇപ്പോൾ 5 ഓം റെസിസ്റ്ററിലെ പവർ I12 അല്ലാതെ മറ്റൊന്നുമല്ല കാരണം 5 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹം I 1 ഉം ഇവിടെ 4 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹം I2 ഉം ആണ് അതിനാൽ നിങ്ങൾ 5 ഓമിന്റെ കാര്യത്തിൽ I1 ന്റെ മൂല്യം മാത്രം നൽകണം അതിനാൽ I12 നിങ്ങൾക്ക് 579 97 വാട്ട് എന്ന് മൂല്യം ലഭിക്കും അതുപോലെ 4 ഓം റെസിസ്റ്ററിന് പവർ ആഗിരണം ചെയ്യുന്ന I22 അത് 436 81 വാട്ട് ആയിരിക്കും അതിനാൽ മൊത്തം പവർ ലഭിക്കുവാൻ ആയിട്ട് നിങ്ങൾ ഇവ രണ്ടും കൂടി കൂട്ടിയാൽ മുമ്പ് കണക്കാക്കിയ അതേ മൂല്യം ലഭിക്കും അതിനാൽ മുമ്പത്തെ കേസിൽ നിങ്ങൾ കണക്കാക്കിയതെല്ലാം ശരി ആണോ എന്ന് ഈ രീതിയിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന മറ്റൊരു ഉദാഹരണം ഇത് നിങ്ങൾ പുസ്തകത്തിൽ കാണുന്ന വളരെ സാധാരണ ഉദാഹരണമാണ് ഇത് സമതുലിതമായ സ്റ്റാർ കണക്റ്റുചെയ്ത 3 ഫേസ് ലോഡാണ് കൂടാതെ R Y B ഫേസിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരകളുടെ മൂല്യം നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെയും നമുക്ക് മെഷ് കറന്റ് അനാലിസിസ് പ്രയോഗിക്കാൻ കഴിയും ലൈൻ ടു ലൈൻ വോൾട്ടേജ് അതായത് R Y കു കുറുകെ ഉള്ള വോൾട്ടേജ് 415∠120 എന്നും Y നും B നും ഇടയിൽ 415∠0 എന്നും ഇത് സമതുലിതമായ 3 ഫേസ് ലോഡാണ് ലോഡുകൾക് കുറുകെ ഉള്ള ഇംപെഡൻസ് 3 j4 ആണ് ഇപ്പോൾ നിങ്ങൾ മെഷ് കറന്റ് വിശകലനം പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന രണ്ട് മെഷുകൾ ഉണ്ടാകും ഈ പ്രത്യേക മെഷിൽ ഒഴുക്കുന്ന കറന്റ് I1 ആണ് ഈ മെഷിൽ ഒഴുക്കുന്ന കറന്റ് I2 ആണ് അതിനാൽ ഇപ്പോൾ രണ്ട് മെഷ് കറന്റുകളും കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ലൂപ്പിനും കെവിഎലുകൾ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും കഴിയും ലൂപ്പ് 1 നായി നിങ്ങൾ KVL പ്രയോഗിച്ചാൽ മൂല്യം എന്തായിരിക്കും ലൂപ്പ് ഒന്നിൽ I13 j4 I13 j4 − I23 j4 415∠120◦ അതായത് 6 j8 I1 − 3 j4 I2 − 415∠120◦ 0 അതുപോലെ തന്നെ രണ്ടാമത്തെ ലൂപ്പിനും ലൂപ്പ് രണ്ടിൽ I23 j4 − I13 j4 I23 j4 415∠0◦ അതായത് −3 j4 I1 6 j8 I2 − 415∠0◦ 0 ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങളും ലഭ്യമാണ് നിങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് കൂടാതെ കറന്റ് I1 I2 എന്നിവയുടെ മൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ലൈൻ കറന്റ് IR I1 IY I2 − I1 ഉം IB −I2 അതിനാൽ ഇവ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കാരണം മിക്ക സമയത്തും ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിശകലനത്തിൽ നിങ്ങൾ കാണും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലോഡ് നൽകി ലൈൻ ടെർമിനലുകളിലൂടെ ഒഴുകുന്ന ലൈൻ വൈദ്യുത പ്രവാഹങ്ങളെ തിരിച്ചറിയാൻ ആവശ്യപ്പെടും ഇപ്പോൾ മെഷ് വിശകലനത്തിന്റെ മറ്റൊരു പ്രധാന ആശയത്തിലേക്ക് നമുക്ക് വരാം അവിടെ വോൾട്ടേജ് ഉറവിടം മാത്രമല്ല കറന്റ് ഉറവിടവും ഉണ്ട് നിങ്ങൾ മെഷ് വിശകലനം മാത്രം സർക്യൂട്ടിൽ പ്രയോഗിക്കുകയാണെങ്കിൽ കറന്റ് ഉറവിടം വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു കറന്റ് ഉറവിടം ഉള്ള ഈ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സും ഉണ്ട് അതിനാൽ ഇത് അൽപ്പം സങ്കീർണ്ണമായ സർക്യൂട്ടാണെന്നും പരിഹരിക്കാൻ പ്രയാസമാണെന്നും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഇതുവരെ ചർച്ച ചെയ്തതിനേക്കാൾ വളരെ എളുപ്പമാണ് എങ്ങനെ കാരണം കറന്റ് ഉറവിടത്തിന്റെ സാന്നിധ്യം സമവാക്യങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു അതിനാൽ ഇതുമൂലം സമവാക്യങ്ങളുടെ എണ്ണം കുറയും ഇത്തരത്തിലുള്ള സർക്യൂട്ട് പരിഹരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിന് ആദ്യം രണ്ട് കേസുകൾ എടുക്കാം അതുവഴി കറന്റ് ഉറവിടങ്ങൾ അടങ്ങിയ രണ്ട് വ്യത്യസ്ത തരം സർക്യൂട്ടുകൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ആദ്യത്തേത് കറന്റ് ഉറവിടം ഒരു മെഷിൽ മാത്രമേ ഉള്ളൂ അതിനാൽ ഈ സാഹചര്യത്തിൽ കറന്റ് ഉറവിടം ഈ പ്രത്യേക മെഷിൽ മാത്രമേ നിലനിൽക്കൂ എന്ന് നിങ്ങൾ കാണും അതിനാൽ ഈ പ്രത്യേക മെഷിന് ഇത് 5 ആമ്പിയർ ആണ് ഈ മെഷിൽ വോൾട്ടേജ് ഉറവിടം അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ കറന്റ് ആമ്പിയർ ആയി എടുക്കും കാരണം ന്റെ ദിശ ഞങ്ങൾ നായി എടുത്തതുപോലെ ഘടികാരദിശയിൽ എടുക്കുന്നു എന്നാൽ കറന്റ് ഉറവിടം കറന്റ് ന് നിങ്ങൾ അനുമാനിച്ചതിന് വിപരീതമാണ് അതിനാൽ മൈനസ് 5 ആമ്പിയർ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും കാരണം ഈ ദിശയിലേക്ക് പ്രവഹിക്കുകയും കറന്റ് ഉറവിടത്തിൽ നിന്നുള്ള വൈദ്യുതധാര ഈ ദിശയിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും അതിനാൽ മൈനസ് 5 ആമ്പിയർ അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ ചിത്രം ഉപയോഗിച്ച് പരിശോധനയിലൂടെ നമുക്ക് നേരിട്ട് ന്റെ മൂല്യം ലഭിച്ചു അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അടുത്തതായി ഞങ്ങൾ മറ്റ് മെഷിലെ കറന്റ് കണ്ടെത്തണം അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക മെഷിനായി മെഷ് സമവാക്യം എഴുതണം അതിനാൽ നിങ്ങൾ എന്താണ് എഴുതുക ഈ പ്രത്യേക മെഷിനായി നിങ്ങൾ 1046 എന്ന് എഴുതാം ഇപ്പോൾ ആമ്പിയർ ആണ് നിങ്ങൾക്ക് ഈ സമവാക്യത്തിൽ ന്റെ മൂല്യം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കറന്റ് A എന്ന് ലഭിക്കും ഇപ്പോൾ ആ പ്രത്യേക കേസ് താരതമ്യേന ലളിതമായിരുന്നു കാരണം കറന്റ് ഉറവിടം ഒരു മെഷിൽ മാത്രമായിരുന്നു കറന്റ് ഉറവിടം രണ്ട് മെഷുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ രണ്ട് മെഷുകളും കറന്റ് ഉറവിടം പങ്കിടുന്നുവെങ്കിൽ നിങ്ങൾ എന്തുചെയ്യണം ഒരു സൂപ്പർ മെഷ് സൃഷ്ടിച്ച് നിങ്ങൾ സർക്യൂട്ട് വിശകലനം ചെയ്യണം സൂപ്പർ മെഷ് എന്നാൽ എന്താണ് കറന്റ് ഉറവിടത്തെയും ആ പ്രത്യേക ഉറവിടവുമായി സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ കറന്റ് ഉറവിടവും കറന്റ് ഉറവിടവുമായി സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ഓം റെസിസ്റ്ററും ഉള്ള ഈ സെഗ്മെന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ വിശകലനത്തിനായി നിങ്ങൾ എന്തു ചെയ്യും മെഷ് വൈദ്യുതധാരകൾ അതേപടി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ പ്രത്യേക ശാഖയെ സർക്യൂട്ടിൽ നിന്ന് നീക്കംചെയ്യും അതിനാൽ ഈ സാഹചര്യത്തിലെന്നപോലെ രണ്ട് മെഷുകളും ഉണ്ട് ഇവ രണ്ടും ഘടികാരദിശയിൽ ആണ് അതിന്റെ മൂല്യങ്ങൾ എന്ന് അനുമാനിക്കുക അതിനാൽ കറന്റ് അതേപടി നിലനിൽക്കും എന്നാൽ ഈ രണ്ട് മെഷുകളും തമ്മിലുള്ള ലിങ്ക് നീക്കംചെയ്തു കാരണം അതിൽ കറന്റ് ഇന്റെ ഉറവിടം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും രണ്ട് മെഷുകൾ അടങ്ങിയ ഒരു സൂപ്പർ മെഷ് ലഭിക്കുന്നു അതിൽ കറന്റ് ഇന്റെ ഉറവിടം നീക്കം ചെയ്യുകയും സൂപ്പർ മെഷ് സൃഷ്ടിക്കുകയും ചെയ്തു അതിനാൽ ഈ കേസിൽ എന്ത് സംഭവിക്കും നമ്മൾ നീക്കം ചെയ്ത ബ്രാഞ്ച് ഒഴികെയുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള മെഷ് ആയിരിക്കും സൂപ്പർ മെഷ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് സൂപ്പർ മെഷ് ആയിരിക്കും പക്ഷേ നമുക്ക് രണ്ടോ അതിലധികമോ കറന്റ് ഉറവിടങ്ങൾ ലഭിച്ചേക്കാവുന്ന കുറച്ച് കേസുകളുണ്ടാകാം അങ്ങനെയെങ്കിൽ രണ്ടോ അതിലധികമോ സൂപ്പർ മെഷുകൾ ലഭിച്ചേക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിഭജിക്കുന്ന സൂപ്പർ മെഷുകളെ നിങ്ങൾ സംയോജിപ്പിക്കണം അതിനാൽ രണ്ട് പ്രധാന മെഷുകൾ തമ്മിൽ കൂടിച്ചേരുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ സൂപ്പർ മെഷ് സൃഷ്ടിക്കാൻ കഴിയൂ അതിനാൽ ഈ പ്രത്യേക കാര്യം നമ്മൾ ഒരു ഉദാഹരണം ഉപയോഗിച്ച് ചർച്ച ചെയ്യും സർക്യൂട്ട് പരിഹരിക്കുന്നതിന് സൂപ്പർ മെഷ് എങ്ങനെ സഹായിക്കുമെന്ന് ഇപ്പോൾ മനസിലാക്കാം ഇപ്പോൾ സൂപ്പർ മെഷ് സൃഷ്ടിക്കേണ്ടതുണ്ട് കാരണം മെഷ് വിശകലനം ചെയ്യാൻ കെ വി എൽ പ്രയോഗിക്കും കെവിഎല്ലിന് ഓരോ ശാഖയിലുടനീളമുള്ള വോൾട്ടേജ് അറിയുകയും വേണം എന്നാൽ കറന്റ് ഉറവിടം ഉള്ളപ്പോൾ കറന്റ് ഉറവിടത്തിലുടനീളം വോൾട്ടേജ് മുൻകൂട്ടി കണ്ടെത്താൻ പ്രയാസമാണ് അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ സൂപ്പർ മെഷ് ഉപയോഗിക്കുകയും ആ സൂപ്പർ മെഷിലേക്ക് കെവിഎൽ പ്രയോഗിക്കുകയും ചെയ്യും അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ സൂപ്പർ മെഷ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഇത് എന്ന് ആരംഭിക്കും ഇപ്പോൾ നിങ്ങൾ അത് പരിഹരിച്ചാൽ നിങ്ങൾ അത് ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ മെഷ് ഉപയോഗിച്ച് ഒരു സമവാക്യം ലഭിച്ചു പക്ഷേ രണ്ട് വേരിയബിളുകൾ ഉള്ളതിനാൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം സമവാക്യങ്ങൾ ആവശ്യമാണ് രണ്ടാമത്തെ സമവാക്യം നമുക്ക് എങ്ങനെ ലഭിക്കും കിർചോഫ് കറന്റ് നിയമത്തിന്റെ സഹായത്തോടെ നമുക്ക് രണ്ടാമത്തെ സമവാക്യം ലഭിക്കും അത് രണ്ട് മെഷുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു നോഡിലേക്ക് പ്രയോഗിക്കും അതായത് ഈ പ്രത്യേക സ്ഥലത്തു നമ്മൾ ഉപയോഗിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ നോഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും വരുന്നതും 6 ആമ്പിയർ കറന്റ് ഉറവിടം എന്നിവ പുറത്തുപോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് കിർചോഫ് കറന്റ് നിയമംKirchhoff's current law പ്രയോഗിച്ച് എന്ന് പറയാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സമവാക്യം ലഭിച്ചു ആദ്യത്തേത് ഈ സമവാക്യമാണ് രണ്ടാമത്തേത് കിർചോഫ് കറന്റ് നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്A A എന്നിവ ആണ് മൂല്യം അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ കറന്റ് ഉറവിടങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരം സർക്യൂട്ടുകൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും അതിനാൽ ഒരു ഉദാഹരണം നോക്കാം അതുവഴി സൂപ്പർ മെഷിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ നമുക്ക് ഈ സർക്യൂട്ട് എടുക്കാം ഈ സർക്യൂട്ടിൽ ഒരു ഡിപെൻഡന്റ് കറന്റ് ഉറവിടവും ഒരു ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടവും അടങ്ങിയിരിക്കുന്നു ശരിയാണ് ഇപ്പോൾ മുതൽ വരെയുള്ള മൂല്യങ്ങൾ കണ്ടെത്തണം നിങ്ങൾ ഈ സർക്യൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് നാല് മെഷുകൾ ഉള്ളതായി കാണാം അതിനാലാണ് പോലുള്ള നാല് മെഷ് കറന്റുകൾ ഉള്ളത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുക രണ്ട് കറന്റ് ഉറവിടങ്ങളുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കും അതിനാൽ സൂപ്പർ മെഷ് കണ്ടെത്തുന്നതിന് നിങ്ങൾ മുമ്പ് ചർച്ച ആ പ്രത്യേക സാങ്കേതികവിദ്യ പ്രയോഗിച്ചാൽ നിങ്ങൾ ആദ്യം ഈ പ്രത്യേക ലിങ്ക് നീക്കംചെയ്യും ഇതുപോലുള്ള ഒരു സൂപ്പർ മെഷ് നിങ്ങൾക്ക് ലഭിക്കും കറന്റ് ഇന്റെ മറ്റൊരു ഉറവിടമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഈ കറന്റ് ഉറവിടം നീക്കംചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൂപ്പർ മെഷ് ലഭിക്കും ഇപ്പോൾ ഈ രണ്ട് മെഷുകളും പരസ്പരം മറികടക്കുന്നു എന്നതാണ് പ്രശ്നം രണ്ട് മെഷുകൾ പരസ്പരം മറികടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവ രണ്ടും ലയിപ്പിച്ച് ഒരു വലിയ സൂപ്പർ മെഷ് സൃഷ്ടിക്കണം അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് മറ്റൊരു സൂപ്പർ മെഷ് ലഭിക്കും അത് രണ്ട് സൂപ്പർ മെഷുകളുടെയും യൂണിയനാണ് അതിനെ നിങ്ങൾ വലിയ സൂപ്പർ മെഷ് എന്ന് വിളിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ സൂപ്പർ മെഷ് ലഭിക്കുന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കിർചോഫ് വോൾട്ടേജ് നിയമം ഇപ്പോൾ വലിയ സൂപ്പർ മെഷ് ഇൽ പ്രയോഗിക്കാം അതിനാൽ വലിയ സൂപ്പർ മെഷിനായി നിങ്ങൾ കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും 2 ഓം റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ കിർചോഫ് വോൾട്ടേജ് നിയമത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറന്റ് രണ്ട് കറന്റ് ഉറവിടങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ എന്തുചെയ്യണം രണ്ട് കറന്റ് ഉറവിടങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് നോഡുകളിൽ നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കണം അതിനാൽ നോഡ് പി യ്ക്കായി നിങ്ങൾ കിർചോഫ് കറൻറ് ലോ പ്രയോഗിക്കുകയും മെഷ് കറന്റ് ആണെങ്കിൽ നോഡ് പിയിലേക്ക് പോകുകയും മെഷ് കറന്റ് നോഡ് പിയിൽ നിന്ന് പുറത്തുവരുകയും 5 ആമ്പിയറിന്റെ മറ്റൊരു കറന്റ് ഉറവിടം നോഡ് പിയിൽ നിന്ന് പുറത്തുവരുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് എന്ന് എഴുതാം ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ സമവാക്യം ലഭിച്ചു ഇത് നിങ്ങളുടെ ആദ്യ സമവാക്യമായിരുന്നു നിങ്ങൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തേത് നോഡ് ക്യൂവിൽ കെസിഎൽ പ്രയോഗിച്ചാൽ കിട്ടുന്ന സമവാക്യമാണ് അതിനാൽ നോഡ് ക്യൂവിനായി നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും കാരണം ഇവ നോഡിനുള്ളിൽ വരികയും നോഡിന് പുറത്ത് പോകുകയും ചെയ്യുന്നു അതിനാൽ അതിനാൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് സമവാക്യങ്ങൾ ലഭിച്ചു ഇപ്പോൾ അൺനോണുകൾ എത്രയാണ് അൺനോണുകൾ നാല് എന്നിവയാണ് അതിനാൽ നമുക്ക് നാലാമത്തെ സമവാക്യം എവിടെ നിന്ന് ലഭിക്കും ഈ മെഷിനായി സമവാക്യം എഴുതി നാലാമത്തെ സമവാക്യം സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ഈ മെഷ് കണ്ടാൽ കാരണം ഉം ഉം വിപരീത ദിശയിലാണ് അതിനാൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ന് ലഭിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ മൂല്യങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് ലഭിക്കും അതിനാൽ ഇത് ഇപ്പോൾ ലളിതമാക്കിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ മെഷിനായി സമവാക്യം ആവശ്യമാണ് അതിനാൽ നമ്മൾ എന്താണ് എഴുതുക ഈ മെഷിനായി നിങ്ങൾ കെവിഎൽ എഴുതുന്നു അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക

അതിനാൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു സമവാക്യം ലഭിക്കും നിങ്ങൾ ഇതും ഇതും ഇതും ഉപയോഗപ്പെടുത്തണം മാത്രമല്ല എവിടെ എല്ലാം ആണോ നമ്മൾ ഇത് ഉപയോഗിച്ചത് അവിടെ എല്ലാം പിന്നീട് മൂല്യം സമവാക്യം മൂന്നിൽ ഇടുകയും ചെയ്താൽ നമുക്ക് എന്ന് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് നാല് അന്തിമ സമവാക്യങ്ങളുണ്ട് കൂടാതെ നിങ്ങൾക്ക് നാല് അൺനോണുകൾ ഉണ്ട് അതിനാൽ ഈ നാല് സമവാക്യങ്ങളും നിങ്ങൾ പരിഹരിച്ചാൽ കറന്റ് എന്നിവയ്ക്കുള്ള മൂല്യങ്ങൾ ലഭിക്കും അതിനാൽ വലിയ സൂപ്പർ മെഷ് സൂപ്പർ മെഷ് എന്നി ആശയങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ പരിഹരിക്കുന്നത് വളരെ എളുപ്പമാണ് അവ ആദ്യമായി കാണുമ്പോൾ അൽപ്പം സങ്കീർണ്ണമായി കാണപ്പെടുന്നു പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം അത് കറന്റ് ഉറവിടത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ഡിപെൻഡന്റ് കറന്റ് ഉറവിടത്തിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഡിപെൻഡന്റ് കറന്റ് ഉറവിട മൂല്യം വോൾട്ടേജ് ഉറവിടത്തിൽ നിന്ന് ഒഴുകുന്ന വൈദ്യുതധാരയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ മൂല്യം നമ്മൾ കണ്ടെത്തിയത് എന്നാണ് കറന്റ് ഉറവിടത്തെ ആശ്രയിച്ച് വിശകലനം നടത്തുന്നത് എളുപ്പമായിരുന്നു അതിനാൽ ഇതുപയോഗിച്ച് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കും അതിനാൽ ഇന്ന് നമ്മൾ മെഷ് വിശകലനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കറന്റ് ഉറവിടങ്ങൾ ഉൾപ്പെട്ട മെഷ് വിശകലനത്തെക്കുറിച്ചും ചർച്ചചെയ്തു അതിനാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോഡ് വിശകലനത്തെക്കുറിച്ച് ചർച്ചചെയ്യും കാരണം അവിടെയാണ് നമ്മൾ കിർചോഫ് കറന്റ് നിയമം പ്രയോഗിക്കുകയും വോൾട്ടേജ് ഉറവിടങ്ങൾ ഉള്ള സർക്യൂട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് നന്ദി